നാലാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഹാൻഡ് കാൽക്കുലേഷനിലൂടെ അൺനോൺ ഇംപെഡൻസ് കണ്ടെത്തിയ അതേ കാര്യം ഇപ്പോൾ നമ്മൾക്ക് കാണാൻ ശ്രമിക്കാം ഇപ്പോൾ നമ്മൾ സ്മിത്ത് ചാർട്ട് പഠിച്ചതിനാൽ അത് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കും ഈ പ്രത്യേക മെഷർമെന്റ് കാൽക്കുലേഷൻ വളരെ വിപുലമായതല്ല അതുകൊണ്ടുതന്നെ എല്ലായ്പ്പോഴും നിങ്ങൾ അത് സ്മിത്ത് ചാർട്ട് വഴി ചെയ്യേണ്ടതില്ല എന്നാൽ സ്മിത്ത് ചാർട്ട് ഉപയോഗിക്കാൻ നമ്മൾ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു കാരണം പിന്നീട് നിങ്ങൾ അനാലിസിസിലും ഡിസൈനിലും നെറ്റ്വർക്ക് അല്ലാത്ത കാര്യങ്ങൾ കണ്ടെത്തും ഇത് വളരെ ലളിതമാണ് എന്നാൽ ലബോറട്ടറിയിൽ നമ്മൾ കൂടുതൽ നിയന്ത്രണ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാൽ റിയൽ മൈക്രോവേവ് ആപ്ലിക്കേഷനുകളിൽ കാര്യങ്ങൾ സങ്കീർണ്ണമായേക്കാം ആ സമയം നിങ്ങൾ ഈ ഉപകരണം ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടമാകും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കാൽക്കുലേറ്റർ നിന്ന് 10 ഇൻറ്റു അല്ലെങ്കിൽ 5 ഇൻറ്റു 4 നെ കണ്ടെത്താൻ കഴിയും എന്നാൽ 4 അക്ക നമ്പർ മറ്റൊരു 2 അല്ലെങ്കിൽ 3 അക്ക നമ്പർ ഉപയോഗിച്ച് ഗുണിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം സമാനമായ കാര്യം ഈ സ്മിത്ത് ചാർട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് പ്രശ്നത്തിലാകും പ്രത്യേകിച്ചും നിങ്ങൾ സ്മിത്ത് ചാർട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇംപെഡൻസ് മാച്ചിങ് സമയത്ത് ആയിരിക്കും നിങ്ങൾ പ്രശ്നത്തിലാകുക അതുകൊണ്ടാണ് സ്മിത്ത് ചാർട്ടിലൂടെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതിനാൽ അതെ പ്രശ്നം നമുക്ക് വീണ്ടും വരുന്നു 7 പോയിന്റ് അൺനോൺ ഇംപെഡൻസ് അളവ് ഫ്രീക്വൻസി 7 5 ഗിഗാ ഹെർട്സ് ആണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്ന കാരണത്താൽ ലോഡ് പ്ലെയിനിൽ ഒരു ഷോർട്ട് വയ്ക്കുന്നത് ഞാൻ ആവർത്തിക്കുകയാണ് അതിനാൽ വോൾട്ടേജ് മിനിമകൾ ഈ പോയിന്റിലാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു തുടർന്ന് നീക്കംചെയ്തതും അൺനോൺണുമായ ലോഡ് ഇടുന്നു വിഎസ്ഡബ്ല്യുഎം മീറ്റർ ഉപയോഗിച്ച് വിഎസ്ഡബ്ല്യുആർ അളക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ വിവരിച്ചതുപോലെ നിങ്ങൾ വിഎസ്ഡബ്ല്യുആർ 1 5 ആയി അളന്നു അതിൽ നിന്ന് ആ വോൾട്ടേജ് മിനിമ നിങ്ങൾ കണ്ടെത്തി ഷോർട്ട്ന്റെ അൺനോൺ ലോഡിലേക്കുള്ള ഈ മാറ്റം കാരണം ജനറേറ്ററിലേക്ക് 1 48 സെന്റീമീറ്ററാണ് അതിനാൽ ഇപ്പോൾ മാനുവൽ കാല്ക്കുലേഷന് പകരം നമ്മൾ അത് സ്മിത്ത് ചാർട്ട് വഴി ചെയ്യും അതിനാൽ ഇതാണ് ആദ്യത്തെ പോയിന്റ് നമ്മൾ VSWR 1 5 ആയി അളന്നതായി പറയുന്നു അതിനാൽ 1 പോയിന്റ് സർക്കിളിന്റെ കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് സ്മിത്ത് ചാർട്ടിന്റെ റിയൽ ആക്സിസ് മുറിക്കുന്ന പോയിന്റ് കണ്ടെത്താൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എനിക്ക് ആദ്യമായി നിർദ്ദേശം നൽകിയപ്പോൾ വന്ന ചോദ്യം എന്തുകൊണ്ട് ഞാൻ VSWR അളന്നു എന്തുകൊണ്ടാണ് 1 5 എന്ന കോൺസ്റ്റന്റായ റെസിസ്റ്റൻസ് സർക്കിൾ ഉപയോഗിച്ച് ഞാൻ ഇത് ചെയ്യുന്നത് മൈക്രോവേവ് ലബോറട്ടറിയിലെ ഇൻസ്ട്രക്ടർമാർക്കും ഇവയെക്കുറിച്ച് വ്യക്തതയില്ല എന്ന് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതിനാൽ അവർ പറയുന്നു അത് വിദ്യാർത്ഥികൾ ചിലപ്പോൾ വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കാതെ എന്തെങ്കിലും ചെയ്താൽ പിന്നീട് നിങ്ങൾ അത് മറക്കും അതിനാൽ യഥാർത്ഥത്തിൽ ഇത് ഈ മുഴുവൻ പ്രഭാഷണത്തിലെ ഒരു പുതിയ കാര്യമാണ് ഇത് വളരെ പ്രധാനവുമാണ് അതിനാൽ ഇത് എന്തുകൊണ്ടാണെന്ന് ട്രാൻസ്മിഷൻ ലൈനിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ വീണ്ടും വിശദീകരിക്കും അതിനാൽ VSWR നമ്മൾ 1 5 ആയി അളന്നു R എന്നത് 1 5 സർക്കിളിന് തുല്യമായ പോയിന്റ് എവിടെയാണെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു അതായത് 1 5 സർക്കിളിന്റെ കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് സ്മിത്ത് ചാർട്ടിന്റെ റിയൽ ആക്സിസ് മുറിക്കുന്നു അതിനാൽ ആ ലൈൻ റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റിന്റെ Γ ആണെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾ ZL ന്റെ ഒരു ലോഡുമായി ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസിന്റെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ലോഡിൽ ഒരു റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് ഉണ്ട് എന്നാൽ അതിനെ ΓL എന്ന് വിളിക്കുന്നു നിങ്ങൾ ട്രാൻസ്മിഷൻ ലൈനിലൂടെ നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റിന്റെ മൂല്യം മാറുന്നു അതായത് വോൾട്ടേജ് വേവ്സിന്റെ റേഷ്യോ ഇൻസിഡന്റ് വേവ് റിഫ്ലക്റ്റഡ് വേവ് റേഷ്യോ മാറുന്നു ഇതിനെ ലൈൻ റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റെ എന്ന് വിളിക്കുന്നു Γ എന്നത് ഒരു ലൈൻ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ആണ് ഇപ്പോൾ ΓL ഒരു സങ്കീർണ്ണ അളവാണ് അതിനാൽ നമ്മൾ അതിനെ മാഗ്നിറ്റ്യൂഡ് ഭാഗമായും ഫെയ്സ് ഭാഗമായും വിഭജിക്കുന്നു Γ ∣Γ ∣e−j∠θ e− j2 βl തുടർന്ന് l ഡിസ്റ്റൻസ് ചലനം കാരണം എനിക്ക് ലളിതമായ ട്രാൻസ്മിഷൻ ലൈൻ കാര്യമായ ഫെയ്സ് e− j2 βl ലഭിക്കുന്നു അതിനാൽ നിങ്ങൾ ജനറേറ്ററിൽ നിന്ന് നീങ്ങുന്നു ട്രാൻസ്മിഷൻ ലൈനിലെ ലോഡിൽ നിന്ന് ജനറേറ്ററിലേക്ക് നീങ്ങുമ്പോൾ സ്മിത്ത് ചാർട്ടിലെ തുല്യത എന്താണ് Γ ലൈൻ റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല മാറുന്നത് അതിന്റെ ഫെയ്സ് ആണ് അതിനാൽ ലൈൻ ഇംപെഡൻസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും ∣Γ ∣ ന് തുല്യമാണ് അതായത് ലോഡ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡും ലൈൻ ഇംപെഡൻസും ഒരു ലൈൻ റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡും അവ എല്ലായ്പ്പോഴും സമാനമാണ് ∣Γ ∣ പോയിന്റുകൾക്കൊപ്പം അതായത് ലോഡ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ് അപ്പോൾ അത് എന്താണ് ഇപ്പോൾ ആ സ്മിത്ത് ചാർട്ട് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ആയി ചിന്തിക്കുക അതിനാൽ ഏതെങ്കിലും ഏകപക്ഷീയമായ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് കാണിക്കുന്ന ചില റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ചിത്രം ഉണ്ട് നിങ്ങൾ അത് മാറ്റുകയാണ് പക്ഷേ റേഡിയസ് അതായത് റേഡിയസ് വെക്റ്റർ മാറ്റമില്ലാതെ അവശേഷിക്കുന്നു അതിനാൽ മാറുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഒരു സർക്കിളിൽ നീങ്ങുന്നു എന്നാണ് നമ്മൾ പറയുന്നു ഇതൊരു സർക്കിൾ ആണെന്ന് നിങ്ങൾ കാണുന്ന ആ സർക്കിളിൽ എന്താണ് VSWR എന്താണ് വിഎസ്ഡബ്ല്യുആർ എന്നത് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ മുമ്പത്തെ കേസുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് VSWR 1∣Γ∣ 1−∣Γ∣ അതിനാൽ ∣Γ∣ കോൺസ്റ്റന്റ് ആയി തുടരുകയാണെങ്കിൽ VSWR ഉം കോൺസ്റ്റന്റ് ആണ് അതിനർത്ഥം ഞാൻ നീങ്ങുമ്പോൾ ലൈൻ റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് മാറുകയാണ് പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ ഒരു സർക്കിളിലാണ് നീങ്ങുന്നത് ആ സർക്കിൾ കോൺസ്റ്റന്റായ VSWR നെ പ്രതിനിധീകരിക്കുന്നു ഞാൻ ട്രാൻസ്മിഷൻ ലൈനിലൂടെ നീങ്ങുകയാണെങ്കിൽ VSWR മാറില്ല അത് ലോഡ് ഇംപെഡൻസിനെയും ലൈനിന്റെ ക്യാരക്ടർസ്റ്റിക് ഇംപെഡൻസിനെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ട്രാൻസ്മിഷൻ ലൈനിലൂടെ നീങ്ങുന്നത് അർത്ഥമാക്കുന്നത് സ്മിത്ത് ചാർട്ടിൽ നമ്മൾ പോയിന്റുകൾക്കൊപ്പം നീങ്ങുന്നു കോൺസ്റ്റന്റായ VSWR സർക്കിളിലൂടെ നീങ്ങുന്നു എന്നാണ് അതിനാൽ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ VSWR സർക്കിളിലെ ജനറേറ്ററിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് VSWR സർക്കിളിനൊപ്പം ഘടികാരദിശയിൽ സഞ്ചരിക്കുമെന്ന് നമ്മൾക്കറിയാം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആദ്യ സമവാക്യത്തിന്റെ ഘട്ടം കാണുന്നു Γ ∣Γ ∣e−j∠θ e− j2 βl മാറുന്നത് e−j2βl ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഒരു നെഗറ്റീവ് ആംഗിൾ ഘടികാരദിശയിൽ നീങ്ങുന്നു വിഎസ്ഡബ്ല്യുആർ സർക്കിളിലൂടെ ജനറേറ്ററുകളുടെ ഘടികാരദിശയിലുള്ള ചലനത്തിലേക്ക് നീങ്ങുന്നു ഇപ്പോൾ സ്മിത്ത് ചാർട്ട് ചുറ്റളവിൽ ഞാൻ പറഞ്ഞു ഞാൻ ട്രാൻസ്മിഷൻ ലൈനിൽ അങ്ങനെ നീങ്ങിയാൽ നിങ്ങൾക്ക് ഈ ചലനത്തെ വേവ് ലെങ്ത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും ദൂരം വേവ് ലെങ്ത്തിന്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും പറയാനാകും ഞാൻ 4 5 സെന്റീമീറ്ററാണ് ചലിപ്പിക്കുന്നതെന്ന് കരുതുക ലാംഡ λ വേവ് ലെങ്ത് 3 സെന്റീമീറ്റർ ആണെന്നാണ് എന്റെ ഫ്രീക്വൻസി പറയുന്നതെങ്കിൽ 4 5 സെന്റീമീറ്ററിനു പകരം എനിക്ക് 4 5 3 എന്ന ദൂരം നീങ്ങി എന്ന് പറയാം അതായത് 1 5 ലാംഡ λ അതിനാൽ സ്മിത്ത് ചാർട്ട് പെരിഫറിയിൽ നിങ്ങൾക്ക് 1 5 Z ലാംഡ എന്താണെന്ന് കണ്ടെത്താനാകും ശെരിക്കും സ്മിത്ത് ചാർട്ടിൽ അവർ 0 5 ൽ കൂടുതൽ നൽകുന്നില്ല കാരണം ഓരോ 0 5 λg ന് ശേഷവും മുഴുവൻ കാര്യവും ആവർത്തിക്കുന്നതായി നമ്മൾ കണ്ടു സ്മിത്ത് ചാർട്ട് നിങ്ങൾക്ക് 0 5 വരെ നൽകും നിങ്ങൾക്ക് 1 5 ഉണ്ടെങ്കിൽ നിങ്ങൾ 3 റോറ്റേഷൻസ് നടത്തുക അത് 1 5 ആയിരിക്കും അതിനാൽ ഈ വിഎസ്ഡബ്ല്യുആർ സർക്കിൾ റിയൽ ആക്സിസ് മുറിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കാരണം അത് നിർദ്ദേശത്തിന്റെ ഭാഗമാണ് VSWR കട്ട് ചെയ്യുമ്പോൾ ഈ VSWR സർക്കിൾ ഈ റിയൽ ആക്സിസ്നെ മുറിക്കുന്നതായി നിങ്ങൾ കാണുന്നു VSWR സർക്കിൾ റിയൽ ആക്സിസ് മുറിക്കുമ്പോൾ എന്റെ കഴ്സർ കാണിക്കുന്ന ഇവിടെ അത് റിയൽ ആക്സിസ്നെ മുറിക്കുന്നു അതിനാൽ ഇപ്പോൾ സ്മിത്ത് ചാർട്ട് ആലോചിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇത് പൂർണ്ണമായും റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് പ്ലെയിൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ചിന്തിക്കാനാകും അതിനാൽ റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് അടിസ്ഥാനത്തിൽ ഈ പോയിന്റിലെ റിയൽ ആക്സിസിനെ മുറിക്കുന്ന ഈ പോയിന്റിലെ റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് എന്താണ് റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ശുദ്ധമായ ഒരു റിയൽ അളവ് ഉണ്ടെന്ന് എനിക്ക് പറയാനാകില്ലേ അതിന്റെ ഫെയ്സ് 0 ആണ് അതിനാൽ ലൈൻ റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് Γ ഫെയ്സ് 0 ആണെന്ന് ഞാൻ പറഞ്ഞു ആ പോയിന്റാണ് x1 പോയിന്റ് അതിനാൽ ഞാൻ Γ ∣Γ∣∠ 0 ° എന്ന് വിളിക്കുന്നു അതിനാൽ ഇപ്പോൾ സ്മിത്ത് ചാർട്ട് എന്നത് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് പ്ലെയിനിൽ നിന്ന് ഇംപെഡൻസ് പ്ലെയിനിലേക്ക് എപ്പോൾ വേണമെങ്കിലുമുള്ള പരിവർത്തനമാണ് അപ്പോൾ അനുബന്ധ ലൈൻ ഇംപെഡൻസ് എന്തായിരിക്കും ആ കാൽക്കുലേഷൻ നടത്താൻ നമ്മൾക്കറിയാം Z R 1 Γ 1−Γ 1∣Γ∣1−∣Γ∣ അതിനാൽ നിങ്ങൾ കാണുന്നു 1∣Γ∣ 1−∣Γ∣ ഒരു റിയൽ അളവാണ് അതിനാൽ 1 പ്ലസ് കുറച്ച് റിയൽ ക്വാണ്ടിറ്റി ബൈ 1 മൈനസ് റിയൽ ക്വാണ്ടിറ്റി അതും റിയൽ ക്വാണ്ടിറ്റി ആണ് സങ്കീർണ്ണമായ അളവിലുള്ള ഇംപെഡൻസ് ഒരു റിയൽ അളവ് ആണെന്നത് എന്താണ് അർത്ഥമാക്കുന്നത് അതായത് ഇത് പ്രതിരോധം R ആണ് അതുകൊണ്ടാണ് വിഎസ്ഡബ്ല്യുആർ സർക്കിൾ ഈ റിയൽ അച്ചുതണ്ടിനെ മുറിക്കുന്ന ഘട്ടത്തിൽ ലൈൻ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റും ലൈൻ ഇംപെഡൻസും റിയൽ അളവാണ് ഇപ്പോൾ അവയുടെ മൂല്യലൈൻ ഇംപെഡൻസ് R ആണ് എന്നാൽ അതിന്റെ മൂല്യം 1∣Γ∣1−∣Γ∣ ആണ് വീണ്ടും ഈ സ്ലൈഡ് നോക്കുക എപ്പോഴും ഇതൊരു വ്യവസ്ഥയാണ് VSWR 1∣Γ∣ 1−∣Γ∣ ഇപ്പോൾ തിരികെ പോകുക അപ്പോൾ നിങ്ങൾക്ക് RSVSWR എന്ന് കാണാൻ സാധിക്കും അതിനാൽ സർക്കിൾ ഈ കോൺസ്റ്റന്റ്നെ മുറിക്കുന്ന ഘട്ടത്തിൽ VSWR റിയൽ ആക്സിസ് മുറിക്കുന്നു അടിസ്ഥാനപരമായി VSWR മൂല്യം റെസിസ്റ്റൻസ് മൂല്യത്തിന് തുല്യമാണ് അതിനാൽഞാൻ റെസിസ്റ്റൻസ് മൂല്യം വായിച്ചാൽ സ്മിത്ത് ചാർട്ടിൽ വിഎസ്ഡബ്ല്യുആർ മൂല്യം സ്പഷ്ടമായി സമാനമല്ല മറിച്ച് ഇംപെഡൻസ് ആണ് അതായത് r x മൂല്യങ്ങൾ ഒരേ R X മൂല്യങ്ങൾ ഒന്നുതന്നെയാണ് അതിനാൽ ആ VSWR സർക്കിളിന്റെ 1 പോയിന്റ നൽകുന്ന R മൂല്യം ഞാൻ കണ്ടെത്തും ഒരു സർക്കിളിൽ എനിക്ക് 1 പോയിന്റ് കണ്ടെത്താൻ കഴിയുമെങ്കിൽ എനിക്ക് സെന്റർ അറിയാമെങ്കിൽ എനിക്ക് സർക്കിളിൽ വരയ്ക്കാം അതാണ് ആശയം അതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റെപ് 1 ഉണ്ടാക്കിയത് അതനുസരിച്ച് R എന്നത് 1 5 സർക്കിളിനു തുല്യമായ പോയിന്റ് ആണ് സ്മിത്ത് ചാർട്ടിന്റെ റിയൽ ആക്സിസ്നെ മുറിക്കുന്നത് കണ്ടെത്തുക കാരണം ആ പോയിന്റിൽ എനിക്കറിയാം R എന്നത് VSWR ന് തുല്യമാണെന്ന് അതിനാൽ ഞാൻ VSWR 1 5 ആയി അളന്നതിനാൽ VSWR സർക്കിളിന്റെ 1 പോയിന്റ് കണ്ടെത്തുന്ന ആ പോയിന്റാണ് ഞാൻ കണ്ടെത്തുന്നത് എനിക്ക് എല്ലാ VSWR സർക്കിളുകളും അറിയാം അവയുടെ സെന്റർ സ്മിത്ത് ചാർട്ടിന്റെ ഉത്ഭവമാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു പോയിന്റ് ഇതാണ് VSWR സർക്കിൾ പോയിന്റുകൾ റിയൽ ആക്സിസ്നേ 2 പോയിന്റായി മുറിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ സർക്കിൾ വരയ്ക്കുന്നതിന് ഏതാണ് എടുക്കേണ്ടത് എന്നത് പ്രശ്നമല്ല മറിച്ച് മൂല്യങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടാകും അതിനാൽ മറ്റൊരു പോയിന്റ് എന്താണെന്ന് നോക്കാം എനിക്ക് ഈ പോയിന്റ് ഉണ്ടെങ്കിൽ അതേ സർക്കിൾ മുറിക്കുന്ന മറ്റൊരു പോയിന്റിനായി എനിക്ക് ഒരു റോറ്റേഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ എനിക്ക് 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഒരു റോറ്റേഷൻ ആവശ്യമാണ് ഈ പോയിന്റ് ലഭിക്കുന്നതിന് ക്ലോക്ക് വൈസ് നിങ്ങേണ്ടതുണ്ട് അതിനർത്ഥം ഞാൻ ഇപ്പോൾ ജനറേറ്ററിലേക്ക് പോകുന്നു അതിനാൽ തന്നെ എനിക്ക് Γ നേരത്തെ അറിയാമായിരുന്നു Γ എന്നത് ഗാമാ വേവാണ് ഇത് ഈ സ്ലൈഡിന്റെ ആദ്യ എക്സ്പ്രഷൻ ആണ് അതിനാൽ അതിൽ നിന്ന് ഞാൻ 180 ഡിഗ്രി റൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ 1 എൺപത് ഡിഗ്രി റൊട്ടേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ കണ്ടു Γ ∣Γ∣∠ 180 °−∣Γ∣ അപ്പോൾ അതിനനുസരിച്ചുള്ള ലൈൻ ഇംപെഡൻസ് എന്തായിരിക്കും Z 1−∣Γ| 1∣Γ∣ 1S ലോഡ് എന്തുതന്നെ ആയാലും ഷോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്കിളിനുള്ള മാച്ച് ലോഡ് ഇൻഫിനിറ്റിക്ക് വേണ്ടി 1 മുതൽ ഇൻഫിനിറ്റി 1 വരെ VSWRന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടു അതിനാൽ ഏത് പോയിന്റാണ് എടുക്കേണ്ടത് എന്നതിനുള്ള അവ്യക്തത പരിഹരിക്കാനുള്ള സൂചന ഇതാണ് VSWR സർക്കിൾ റിയൽ ആക്സിസ്നെ 2 പോയിന്റിൽ മുറിക്കും അതിനാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് R ന്റെ 2 മൂല്യങ്ങൾ ലഭിക്കും കാരണം സ്മിത്ത് ചാർട്ട് ഗ്രാജ്വേഷനിൽ ആ പോയിന്റുകളുടെ കോൺസ്റ്റന്റായ R സർക്കിളുകളിൽ 1 ന് 1 ൽ കൂടുതൽ മൂല്യമുണ്ടാകും മറ്റൊന്നിന് 1 ൽ താഴെ മൂല്യമുണ്ടാകും കാരണം VSWR അല്ലെങ്കിൽ s എപ്പോഴും ഒന്നിനെക്കാൾ വലുതാണ് അതിനാൽ നമ്മൾ ഏതാണ് എടുക്കുക എന്നത് നിങ്ങളുടെ തീരുമാനമാണ് അതിനാൽ VSWR സർക്കിൾ റിയൽ ആക്സിസ് RS∨R 1S മുറിക്കുന്നു VSWR എല്ലായ്പ്പോഴും 1 നേക്കാൾ വലുതാണ് അതിനാൽ പോയിന്റ് കണ്ടെത്തുന്നതിൽ ആശയക്കുഴപ്പമൊന്നുമില്ല നിങ്ങൾ R ന്റെ ആ 2 മൂല്യങ്ങൾ വായിച്ചാൽ ഏതാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏതിനാണോ ഉയർന്ന മൂല്യം ഉള്ളത് അതായത് R മൂല്യം 1 നേക്കാൾ കൂടുതലായി ഉള്ളത് അതാണ് എടുക്കേണ്ടത് മറ്റൊന്നിന് അത് എല്ലായ്പ്പോഴും 1 ൽ കുറവായിരിക്കും മധ്യഭാഗത്ത് ഞാൻ ഈ പോയിന്റ് കണ്ടെത്തി എനിക്ക് ഈ സർക്കിൾ വരയ്ക്കാം ഇതാണ് കോൺസ്റ്റന്റായ VSWR സർക്കിൾ അതിനാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്മിത്ത് ചാർട്ട് സെന്ററാക്കി വിഎസ്ഡബ്ല്യുആർ സർക്കിൾ വരയ്ക്കുകയും മുൻ സ്റ്റെപ്പിൽ കണ്ടെത്തിയ പോയിന്റ് പെരിഫറൽ പോയിന്റായി എടുക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു സർക്കിൾ വരയ്ക്കാം അതിനാൽ ആ സർക്കിൾ വരച്ചു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ് നോക്കാം നമ്മൾ അളന്ന VSWR നമ്മൾ ചെയ്തു ഇപ്പോൾ VSWR സർക്കിൾ നമ്മൾ സ്മിത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ നമ്മളുടെ മെഷർമെന്റ് പാർട്ടിന്റെ അല്ലെങ്കിൽ കാൽക്കുലേഷൻ പാർട്ടിന്റെ പകുതി നമ്മൾ ചെയ്തു ഇപ്പോൾ സ്റ്റെപ് 3 ഇപ്പോൾ നമ്മൾ മറ്റ് വിവരങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ഞാൻ പറഞ്ഞ 2 വിവരങ്ങൾ എന്തായിരുന്നു അൺനോൺ ഇംപെഡൻസ് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നത് ഒന്ന് VSWR മറ്റൊന്ന് lmin അതായത് ലോഡ് ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് അൺനോൺ ഇംപെഡൻസിലേക്ക് മാറുമ്പോൾ മിനിമ ഷിഫ്റ്റ് ചെയ്യുന്നു അതിനാൽ സ്മിത്ത് ചാർട്ടിൽ ഷോർട്ട് സർക്യൂട്ട് കണ്ടെത്തണമെന്ന് 3 മത്തെ സ്റ്റെപ് ആവശ്യപ്പെടുന്നു എന്താണ് ഷോർട്ട് സർക്യൂട്ട് 1 180 ഡിഗ്രി അല്ലെങ്കിൽ മൈനസ് 1 അവ എന്റെ ലോഡ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് ആണ് ΓL1 ∠ 180 ° ¿−1 ഓപ്പൺ സർക്യൂട്ട് എന്നാൽ ലോഡ് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് പ്ലസ് 1 എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ പോയിന്റ് എവിടെയാണ് അതിനാൽ ഇപ്പോൾ സ്മിത്ത് ചാർട്ട് ഒരു റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ചാർട്ട് ആയി കരുതുക അതിനാൽ 1 നിങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് സ്മിത്ത് ചാർട്ട് അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് R0 ആണെന്ന് സർക്കിളിനോട് യോജിക്കുന്ന ഔട്ടർ സർക്കിൾനെ നമ്മൾ 1 ആയി കണക്കാക്കുന്നു അതിനാൽ എനിക്ക് 1 180 ഡിഗ്രി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് ചോദിക്കുന്നത് 10 അല്ലെങ്കിൽ -10 എന്നതിലെ ഷോർട്ട് സർക്യൂട്ട് ലോഡാണ് വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിന്റെ അവസാനം അതിനാൽ അത് എവിടെയാണെന്ന്ത് കാണിച്ചിട്ടില്ല ഈ കാരണം കൊണ്ട് ഇത് പ്ലോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടാകുക്കയും ചെയ്യും അതിനാൽ ഇടത് അറ്റത്താണ് നിങ്ങൾ സ്മിത്ത് ചാർട്ട് പ്ലോട്ട് ചെയ്യുക തുടർന്ന് ഷോർട്ട് സർക്യൂട്ട് പ്ലോട്ട് ചെയ്യുക തുടർന്ന് നമ്മൾക്ക് 1 48 സെന്റീമീറ്റർ നീങ്ങേണ്ടിവരുമെന്ന് നമ്മൾ കണ്ടു അത് ഏഴ് 0 5 ജിഗാ ഹെർട്സിൽ ആയിരിക്കും അതിനാൽ ലാംഡ λ 30 മുതൽ 7 5 സെന്റീമീറ്റർ വരെ ആയിരിക്കും അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ലോഡുകളിൽ നിന്ന് ജനറേറ്ററിലേക്ക് 0 37 λ ആണ് അതിനാൽ നിങ്ങൾ ജനറേറ്ററിലേക്ക് നീങ്ങുന്നു മിനിമ ജനറേറ്ററിലേക്ക് 0 37 λ ഷിഫ്റ്റ്ചെയ്യുന്നു എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഇപ്പോൾ സ്മിത്ത് ചാർട്ടിൽ ജനറേറ്ററിലേക്ക് പോകുന്നതിന് ഏത് വഴിയാണ് നീങ്ങേണ്ടതെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ഇനി അതിനോടൊപ്പം നീങ്ങേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ആ പോയിന്റ് കണ്ടെത്തുകയും ഈ ഔട്ടർ ബൌണ്ടറി പെരിഫറൽ പോയിന്റ് ഉത്ഭവത്തിലേക്ക് ചേരുകയും ചെയ്യുന്നു അടുത്ത ഘട്ടം വിഎസ്ഡബ്ല്യുആർ സർക്കിൾ കട്ട് ആകുന്ന പോയിന്റ് ആവശ്യമുള്ള ഇംപെഡൻസാണ് അൺനോൺ ഇംപെഡൻസിന്റെ പോയിന്റ് നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇവയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മൂല്യങ്ങളെന്ന് അതിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ ഇത് സ്മിത്ത് ചാർട്ട് ആണെന്ന് നിങ്ങൾക്കായി ഞാൻ എഴുതുന്നു നിങ്ങൾ ഇതിനകം തന്നെ VSWR സർക്കിൾ വരച്ചിട്ടുണ്ട് അത് അങ്ങനെ ഇരിക്കട്ടെ VSWR സർക്കിൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ വിവരിച്ചു ഇതാണ് VSWR സർക്കിൾ ഇപ്പോൾ നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് ഈ പോയിന്റ് 0 37 λ യിൽ ആണെന്ന് കണ്ടെത്തി നിങ്ങൾ ജനറേറ്ററിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളുടെ 0 37 ആണെന്ന് പറയാം λ ഈ സ്മിത്ത് ചാർട്ടിൽ നൽകിയിരിക്കുന്നു അതിനാൽ ഇത് സെന്ററുമായി ബന്ധിപ്പിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തുന്നു ഈ പോയിന്റിൽ ഇത് VSWR നെ സ്പർശിക്കുകയോ മുറിക്കുകയോ ചെയ്യുന്നു VSWR സർക്കിളിൽ തൊടുന്നില്ല ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ZL ഇപ്പോൾ അൺനോൺ ZL അതിനാൽ ഇത് വീണ്ടും സ്മിത്ത് ചാർട്ടിൽ 1 കോൺസ്റ്റന്റായ റെസിസ്റ്റന്റ് സർക്കിളിന്റെയും1 കോൺസ്റ്റന്റായ റിയാക്ടന്റ് സർക്കിളിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റ് ആയിരിക്കും അതിനാൽ R നുള്ള ഈ പോയിന്റിന്റെ മൂല്യം കണ്ടെത്തുക കൂടാതെ R മൂല്യം എന്താണ് ആർക്ക് ന്റെ x̄ മൂല്യം എന്താണ് ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അറിയാം ZLR j x̄ ആണെന്ന് ഇപ്പോൾ നൽകിയിരിക്കുന്ന ക്യാരക്ടർസ്റ്റിക്ക് ഇംപെഡൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ലബോറട്ടറിയിൽ നമ്മൾ ഒരു വേവ്ഗൈഡ് r g 90 ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് അതായത് 1 എന്നത് x ബാൻഡ് വേവ്ഗൈഡാണ് അതിനാൽ അത് വേവ്ഗൈഡിലേക്ക് TE10 മോഡിനെ മാത്രമേ അനുവദിക്കൂ ഇപ്പോൾ നിങ്ങൾ ഒരു റക്റ്റാങ്കുലർ വേവ്ഗൈഡിൽ TE10 മോഡിനുള്ള വേവ് ഇംപെഡൻസ് കണക്കാക്കേണ്ടതുണ്ട് ഇത് ഫ്രീക്വൻസിയെ ആശ്രയിച്ച് വളരെ നല്ല മൂല്യമാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച് ഗുണിക്കേണ്ടതുണ്ട് അതുവഴി നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഇത് ZLZL ×Z0 ആണ് ഇത് വെറും 50 ഓം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊ ആയിരിക്കില്ല ഇത് വേവ് ഇംപെഡൻസ് ആയിരിക്കും അത് വീണ്ടും സങ്കീർണ്ണമായ ഒരു അളവായിരിക്കാം എന്നാൽ നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഭാഗം എടുത്ത് ഗുണിക്കുക നമ്മൾ ഇത് കാണിച്ചതുപോലെ നിങ്ങൾക്ക് മൊത്തം കാര്യം ലഭിക്കും നിങ്ങളുടെ ഇംപെഡൻസ് കാര്യം സ്മിത്ത് ചാർട്ട് ലബോറട്ടറിയിൽ ഇത് എങ്ങനെ ചെയ്യാമെന്നത് ഇത് പൂർത്തിയാക്കുന്നു ലബോറട്ടറിയിൽ അൺനോൺ ഇംപെഡൻസ് എങ്ങനെ കണ്ടെത്താമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാം ഈ അറിവ് ഉപയോഗിച്ച് ഇനിയുള്ള മൊഡ്യൂളുകളിലേക്ക് നമുക്ക് പോകാം ഒരു അറബ് എഞ്ചിനീയറുടെ ആദ്യ ജോലി കണ്ടെത്താം അയാൾക്ക് ഇംപെഡൻസ് എങ്ങനെ അളക്കാമെന്നും അതോടൊപ്പം മറ്റ് 2 കാര്യങ്ങൾ കൂടി ഫ്രീക്വൻസിയും പവറും എങ്ങനെ അളക്കാമെന്നും അറിയണം അതിനാൽ സർക്യൂട്ടിന്റെ ഏത് പോയിന്റിലും സോഴ്സ് എന്താണ്അയാൾക്ക് എത്രമാത്രം ലഭിക്കുന്നുണ്ടെന്ന് അവന് അറിയാൻ കഴിയും തുടർന്ന് അയാൾക്ക് പവർ കൈമാറാൻ കഴിയുന്ന വിവിധ കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ആരംഭിക്കാം അതിനാൽ ഇംപെഡൻസ് അളക്കുവാൻ അവന് കഴിയും ഇതോടുകൂടി നമ്മൾ നാലാമത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു